നാം ഒപാംപിൻറെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പിലുള്ള വിർച്ച്വൽ ഷോട്ട് കൺസെപ്റ്റ് ചർച്ച ചെയ്തു ഇനി നെഗറ്റീവ് ഫീഡ്ബാക്കിലുള്ള ട്രാൻസിസ്റ്ററുകൾക്ക് ഇതു തന്നെ ചെയ്യാം ഞാൻ ഒരു ഉദാഹരണമെടുക്കാം ഇത് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് സോഴ്സ് ഫോളോവർ ആയിട്ടുള്ള ഉദാഹരണമാണ് ഇതേ തത്വം മറ്റു സർക്യൂട്ട്സിനും പ്രായോഗികം ആണ് സോഴ്സ് ഫോളോവറിൻറെ ഇൻക്രിമെൻറൽ ചിത്രം ഇതാണ് ലളിതമാക്കാനായി ഇൻപുട്ട് സോഴ്സിൻറെ റെസിസ്റ്റൻസ് ഞാൻ ഒഴിവാക്കുകയാണ് ഇതാണ് ലോഡ് റെസിസ്റ്റൻസ് ഇവിടെ VGS gmVGS എന്നിവയുണ്ട് നമുക്കറിയാം സോഴ്സ് ടെർമിനലിൽ കാണുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് Vi gmRL 1 gm RL ആണ് ഈ VGS എന്നത് Vi Voആണ് VGS എന്നത് 1 1 gm RL ആണ് സോഴ്സ് ഫോളോവറിൻറെ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ചർച്ച ചെയ്യുമ്പോൾ gmRL വളരെ വലുതാകുമ്പോൾ ഇത് ഇൻഫിനിറ്റിയിലേക്ക് നീങ്ങുമെന്ന് പറഞ്ഞിരുന്നു ഒരു ഐഡിയൽ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് Vo Vi എന്ന് തരുന്നു അതായത് ഐഡിയൽ ആയി ഗെയിൻ എന്നത് ഒന്നിന് സമമാകുന്നു അതുപോലെ മറ്റ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സിനും മറ്റ് കൺട്രോൾഡ് സോഴ്സസുകൾക്കും ട്രാൻസിസ്റ്ററിൻറെ gm വളരെ വലുതാണെന്ന് നാം കണ്ടെത്തിയിരുന്നു ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ സർക്യൂട്ടിൻറെ സ്വഭാവം ഐഡിയൽ ആകുന്നു ഇനി ഇത് VGS ന് അണുശ്രണമായി പറയാം gmRL എന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇൻക്രിമെൻറൽ VGS നു എന്തു സംഭവിക്കുന്നു gm RL ∞ ആകുമ്പോൾ VGS 0 ആകുന്നു VGS 0 അതായത് ഗേറ്റിനും സോഴ്സിനും ഇടയിൽ വിർച്വൽ ഷോട്ട് ഉണ്ട് പൊതുവേ ഇത് ഇങ്ങനെ ചിന്തിക്കാറില്ല ഒപാംപിൽ മാത്രമാണ് നാം വിർച്വൽ ഷോട്ടിനെപ്പറ്റി സംസാരിച്ചിരുന്നത് ഒപാംപിൽ Ao എന്നതിൻറെ വാല്യൂ ഏറെ വലുതാണ് ഇത് കുറഞ്ഞത് ആയിരങ്ങളിൽ ആണ് പറയപ്പെടുന്നത് അതേസമയം ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സിൽ gmRL എന്നത് അത്ര വലുതല്ല ഇത് 20 30 എന്നിങ്ങനെയുള്ള ചെറിയ വാല്യൂസ് ആയിരിക്കും പക്ഷേ gmRL എന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ ഈ രണ്ടു നോഡ്സിലും ഒരേ വോൾട്ടേജ് ആയിരിക്കും ഗേറ്റ് സോഴ്സും ആയി വിർച്വൽ ഷോട്ട് ആയിരിക്കും അതിനാൽ ട്രാൻസിസ്റ്റർ നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ആണെങ്കിൽ ഗേറ്റിനും സോഴ്സിനും ഇടയിൽ വിർച്വൽ ഷോട്ട് ഉണ്ടായിരിക്കും ഇത് സർക്യൂട്ട്സിനെ പെട്ടെന്ന് വിശകലനം ചെയ്യാനുള്ള ഉപയോഗപ്രദമായ ഒരു രീതി കൂടിയാണ് ഉദാഹരണത്തിന് ഇവിടെ സർക്യൂട്ടിനെപ്പറ്റി മുൻകൂട്ടി അറിവില്ലായിരുന്നെങ്കിൽ ഇത് സോഴ്സ് ഫോളോവർ ആണെന്ന് അറിവില്ലായിരുന്നെങ്കിൽ ട്രാൻസിസ്റ്ററിന് ഫീഡ്ബാക്ക് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കാണും അത് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഇതിനെപ്പറ്റി ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല ഇത് തിരിച്ചറിഞ്ഞാൽ ഗേറ്റ് സോഴ്സ് എന്നിവയുടെ ഇടയിൽ വിർച്വൽ ഷോട്ട് ഉണ്ടെന്ന് അനുമാനിക്കാം അങ്ങനെ ആണെങ്കിൽ വ്യക്തമായി Vo Vi ആയിരിക്കും ഇത് മറ്റെല്ലാ കൺട്രോൾഡ് സോഴ്സ്സിനും ഇതുപോലെ ആയിരിക്കും മറ്റൊരു ഉദാഹരണമായി ഞാനൊരു വോൾട്ടേജ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് കാണിക്കാം ഇതിൻറെ ഇൻക്രിമെൻറൽ പിക്ചർ ഇങ്ങനെയാണ് ഇവിടെ ലോഡ് gmVGS എന്നതാണ് ഇതാണ് VGS ഇനി കറൻറ് Io Vi gm 1 gmR ആണെന്ന് നാം മുൻകൂട്ടി മൂല്യനിർണ്ണയം ചെയ്തിട്ടുണ്ട് ഇത് gm R ∞ ആണെങ്കിൽ ഏകദേശം Vi R ആയിരിക്കും ഇത് VGS എന്നതിൻറെ അടിസ്ഥാനത്തിലും കണക്കാക്കാവുന്നതാണ് ഇനി ഗേറ്റ് സോഴ്സ് എന്നിവയുടെ ഇടയിൽ വിർച്വൽ ഷോട്ട് ഉണ്ടെങ്കിൽ സോഴ്സ് ഗേറ്റും ആയി വിർച്ച്വലി ഷോർട്ടഡ് ആണ് Vi R എന്ന റെസിസ്റ്ററിലെ കറൻറ് അതുപോലെ ഔട്ട്പുട്ടിലേക്ക് ഒഴുകുന്നു ഇവിടെ വിർച്വൽ ഷോട്ട് ഉണ്ടെന്ന് അനുമാനിച്ചാൽ ഇവിടത്തെ കറൻറ് Vi R ആണെന്ന് പെട്ടെന്നുതന്നെ കാണാൻ സാധിക്കും ഇനി ഒരു റിയൽ ട്രാൻസിസ്റ്ററിൽ gm എന്നത് ഫൈനറ്റ് ആയതുകൊണ്ട് വിർച്വൽ ഷോട്ട് ഉണ്ടാകില്ല ഈ കറൻറ് Vi R എന്നതിന് വളരെ അടുത്താണ് Vi R എന്നതിന് എത്ര അടുത്താണ് എന്നുള്ളത് gmR എന്നതിൻറെ യഥാർത്ഥ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പൂർണ്ണതയ്ക്കായി മാത്രം VGS എന്നതിൻറെ എക്സ്പ്രഷൻ കൊടുക്കുന്നു ഇത് Vi 1 1 gm R ആണ് gm R 0 പോകുമ്പോൾ ഇത് പൂജ്യത്തിലേക്ക് പോകുന്നു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് കറൻറ് കൺട്രോൾഡ് കറൻറ് സോഴ്സ് എന്നിവയിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് gm ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള കൺട്രോൾ സോഴ്സസ് മൂല്യനിർണയം ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് സോഴ്സ് ഗേറ്റും ആയി വിർച്ച്വലി ഷോർട്ടഡ് ആണ് എന്നു കരുതുക ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസസ് എന്നിവയുടെ ഏകദേശ വാല്യുവും നൽകുന്നു ഇനി നിങ്ങൾ മുഴുവൻ സർക്യൂട്ട് എടുത്ത് അത് അനലൈസ് ചെയ്ത് കൃത്യമായ വാല്യൂസ് കണ്ടെത്തണം ഇത് ഒപാംപിൽ ആണ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഒപാംപിൻറെ ഗെയിൻ വളരെ കൂടുതലാണ് അതേ സമയം സിംഗിൾ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ലഭിക്കുന്ന gm പോലെയുള്ള നമ്പർ അത്ര വലുതല്ല പക്ഷേ ഇതേ തത്വം ഒരു കംപ്ലീറ്റ് സർക്യൂട്ടിനെ എങ്ങനെ ബാധിക്കുന്നു എന്നു നോക്കാം നമുക്ക് വീണ്ടും ബയാസിംഗ് അടങ്ങിയിട്ടുള്ള സോഴ്സ് ഫോളോവറിൻറെ കംപ്ലീറ്റ് സർക്യൂട്ട് വരയ്ക്കാം ഇത് സപ്ലൈ വോൾട്ടേജ് Vdd യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ആദ്യമായി ബയാസ് പോയിൻറ് സ്ഥാപിക്കുന്നു ബയാസിങ്ങിനു തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട് അതായത് അത് യഥാർത്ഥ ഡ്രയിൻ കറൻറ് ഈ കറന്റിനേക്കാൾ അധികം ആണെങ്കിൽ സോഴ്സ് വോൾട്ടേജ് വർദ്ധിക്കും VGS കുറയും ക്രമേണ ഈ ഓപ്പറേറ്റിങ് പോയിൻറ് സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് VT 2 2Io µnCoxWL എന്നതിലേക്ക് സ്ഥിരപ്പെടും ഇതിനെ C1 എന്നു വിളിക്കാം ഇനി സിഗ്നൽ Vi ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം ഇൻക്രിമെൻറൽ പിക്ചറിൽ VGS 0 ആണെന്ന് നാം കണക്കാക്കി ഇവിടെ ഞാൻ RL കാണിച്ചിട്ടില്ല RL എന്നത് ഷോട്ടിൽ ഉള്ള സാധാരണ കപ്പാസിറ്റർസ് ആയിരിക്കും ഇൻക്രിമെൻറൽ VGS 0 എന്നതിൻറെ അർത്ഥം VGS എന്നതിൻറെ വാല്യു അതുപോലെ നിലനിൽക്കും എന്നതാണ് എന്നാൽ സിഗ്നൽ പ്രയോഗിക്കുമ്പോഴും അത് ഓപ്പറേറ്റിംഗ് പോയിൻറ് വാല്യൂവിന് തുല്യമായിരിക്കും ഉദാഹരണത്തിന് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 3 വോൾട്ട് ആണെന്ന് കരുതുക ഇവിടെ സിഗ്നൽ പ്രയോഗിക്കുമ്പോഴും ഇത് 3 വോൾട്ടിൽ തന്നെ നിൽക്കുന്നു ഇതാണ് വിർച്ച്വൽ ഷോട്ട് ഇൻക്രിമെൻറൽ ആകെയുള്ള ചിത്രത്തിൽ ഇത് വിർച്ച്വലി ഷോർട്ടഡ് ആണ് VGS അതുപോലെതന്നെ നിലനിൽക്കും ഇൻക്രിമെൻറൽ VGS ഇല്ല അതിനാൽ ഈ Vi ഇവിടെ എന്ത് തന്നെ വേവ് ഫോം പ്രയോഗിച്ചാലും കുറച്ച് ലെവൽ ഷിഫ്റ്റോടുകൂടി ഇവിടെ കാണാൻ സാധിക്കും അതായത് ഇത് താഴേക്ക് സ്ഥാനം മാറിയാലും ഇതിൻറെ ആകൃതി അതുപോലെതന്നെ നിലനിൽക്കും ഇതിനെ സോഴ്സ് ഫോളോവർ എന്ന് വിളിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് സോഴ്സ് പിന്തുടരുന്ന ഗേറ്റ് വോൾട്ടേജ് തുല്യമല്ല ഇവ തമ്മിൽ ഒരു VGS വ്യത്യാസമുണ്ട് പക്ഷേ ഇത് ഗേറ്റ് വോൾട്ടേജിൻറെ വ്യതിയാനം പിന്തുടരുന്നു